കീവേഡുകൾ താപനില അസ്വസ്ഥത കാസ്കേഡ് നിയന്ത്രണം ഫീഡ്ബാക്ക് നിയന്ത്രണം നിയന്ത്രണ ലൂപ്പ് റിയാക്ടർ നീരാവി പ്രവാഹ നിരക്ക് Good afternoon this is our last lesson on Process control ഗുഡ് ആഫ്റ്റർനൂൺ ഇത് ഞങ്ങളുടെ അവസാന പാഠമാണ്പ്രോസസ്സ് നിയന്ത്രണം ഇന്ന് നമ്മൾ ചില പ്രത്യേക നിയന്ത്രണ ഘടനകളെ പരിശോധിക്കും പ്രത്യേക അർത്ഥത്തിൽ ഇതുവരെ നമ്മൾ PID നിയന്ത്രണം സ്മിത്ത് പ്രവചന നിയന്ത്രണം എന്നിവയെല്ലാം പഠിച്ചു ഇവിടെ നമ്മൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക പ്രോസസ് വേരിയബിൾഅതായത് ഔട്ട്പുട്ട് sense ചെയ്തു അനു തിരികെ നൽകുന്നു നമ്മൾ ഒരു ആക്യുവേറ്റർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഒന്നു എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരു പ്രക്രിയയിൽ ഒന്നിൽ കൂടുതൽ സെൻസറുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായി കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആക്യുവേറ്ററുകളും ഉണ്ട് അതിനാൽ അത്തരം നിയന്ത്രണ ഘടനകളെക്കുറിച്ച് ഇന്ന് നാം ഹ്രസ്വമായി പരിശോധിക്കും കൂടാതെ ഏത് തരത്തിലുള്ള ഗുണങ്ങൾ നേടാമെന്നും നമ്മൾ കാണും അതിനാൽ അതാണ് ലക്ഷ്യം പ്രത്യേകിച്ചും നമ്മൾ കാസ്കേഡ് നിയന്ത്രണംപഠിക്കും ഇത് വളരെ ജനപ്രിയമായ ഒരു നിയന്ത്രണ തന്ത്രമാണ് ഓവർറൈഡ് കൺട്രോൾ സെലക്ടീവ് കൺട്രോൾ സ്പ്ലിറ്റ് റേഞ്ച് കൺട്രോൾ എന്നറിയപ്പെടുന്ന കൺട്രോൾ രീതികളും നമ്മൾ പഠിക്കും ഇവ പ്രോസസ്സ് കൺട്രോൾ ബുക്കുകളിൽ കാണപ്പെടുന്ന വളരെ സ്റ്റാൻഡേർഡ് ടെർമിനോളജികളാണ് അതിനാൽ നമുക്ക് അത് പരിശോധിക്കാം ശരിയാണ് അതിനാൽ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പ്രബോധന ലക്ഷ്യങ്ങൾ കാണാം അതിനാൽ ഇന്ന് ഈ പാഠം പഠിച്ച ശേഷം വിദ്യാർത്ഥിക്ക് സിംഗിൾ ലൂപ്പ് നിയന്ത്രണത്തിന്റെ ചില പോരായ്മകൾ വിവരിക്കാൻ കഴിയണം കൂടാതെ ഈ ചില പോരായ്മകളെ അടിസ്ഥാനമാക്കി കാസ്കേഡ് നിയന്ത്രണം ഈ ചില പോരായ്മകളെ അഭിസംബോധന ചെയ്യുമെന്നും അതിനാൽ നമ്മൾ കാസ്കേഡ് നിയന്ത്രണം പഠിക്കുകയുംഅതിലൂടെ ഒരു കാസ്കേഡ് നിയന്ത്രണ ലൂപ്പ് വരയ്ക്കാനും പാരമ്പര്യേതര ഒരൊറ്റ സെൻസർ ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ ഈ ഘടനയുടെ ഗുണങ്ങൾ പ്രകടിപ്പിക്കാനും കൂടെ കഴിയുകയും വേണം കൂടാതെ തിരഞ്ഞെടുക്കാവുന്നതും അസാധുവാക്കിയതുമായ നിയന്ത്രണങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ സ്പ്ലിറ്റ് റേഞ്ച് നിയന്ത്രണങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിയും അതിനാൽ അടിസ്ഥാന ആശയം ഇത്തരത്തിലുള്ള നിയന്ത്രണ ലൂപ്പുകളുമായി സ്വയം പരിചയപ്പെടുകയും അവയുടെ പ്രയോജനം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് അതിനാൽ ആദ്യം സിംഗിൾ സെൻസർ നിയന്ത്രണ ലൂപ്പുകളുടെ പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം ചില സമയങ്ങളിൽ ഇത് സംഭവിക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരു നിയന്ത്രണ ലൂപ്പിന്റെ അടിസ്ഥാന ആശയം അസ്വസ്ഥതകൾ പരിഹരിക്കുന്നതിനായി നിയന്ത്രണ ഇൻപുട്ട് ശരിയാക്കുകയോ ക്രമീകരിക്കുകയോ ചെയ്യുക എന്നതാണ് അടിസ്ഥാനപരമായി ഒരു സ്റ്റാൻഡേർഡ് കൺട്രോൾ ലൂപ്പിൽപിശക് അടിസ്ഥാനമാക്കി ഉള്ള ഒരു നിയന്ത്രണ നിയമം കണക്കുകൂട്ടുന്നതിലൂടെയാണ് ഇത് ചെയ്യുന്നത് അതിനാൽ ഒരു അസ്വസ്ഥതയ്ക്കുള്ള പ്രതികരണമായി നിയന്ത്രണ ലൂപ്പ് എത്ര വേഗത്തിൽ ക്രമീകരിക്കും എന്നത് പിശക് എത്ര വേഗത്തിൽ രൂപപ്പെടും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഉദാഹരണത്തിന് നമ്മുടെ സിംഗിൾ സെൻസർ നിയന്ത്രണ ലൂപ്പുകളിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കൺട്രോൾ ലൂപ്പ് എടുക്കാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ റഫറൻസ് വരുന്നു ഇവിടെ നിങ്ങൾക്ക് കൺട്രോളർ C പ്ലാന്റ് P എന്നിവയുണ്ട് ഇതാണ് output ട്ട്പുട്ട് ഒരു ഫീഡ്ബാക്ക് ഉണ്ട് അതിനാൽ പ്ലാന്റ് പ്രവർത്തിക്കുന്നതിൽ വിവിധ സ്ഥലങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാം അതിനാൽ ഇവ അസ്വസ്ഥതകളാണ് d ഇതാണ് സെറ്റ് പോയിന്റ് r ഇതാണ് output y അതിനാൽ കൺട്രോളറിന് അടിസ്ഥാനപരമായി കൺട്രോൾ ഇൻപുട്ടായ ഈ u കണക്കാക്കാം ഒന്നുകിൽ r അല്ലെങ്കിൽ d ലെ അടിസ്ഥാനപരമായ വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ r മാറുകയാണെങ്കിൽ u ക്രമീകരിക്കേണ്ടത് ആവശ്യം ആയിത്തീരുകയും അങ്ങനെ y r ന് അടുത്തായിത്തീരുന്നു ഇപ്പോൾ നിങ്ങൾ അത് കാണുന്നു ഈ കൺട്രോളർ r ലെ എന്തെങ്കിലും മാറ്റം സംഭവിക്കുകയും r ഈ ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് മാറുകയാണെങ്കിൽ ഉടൻ തന്നെ പിശക് ഈ ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് ചാടും അതിനാൽ പിശകിലെ മാറ്റം r ന്റെ മാറ്റത്തിന് അനുസരിച്ച് തൽക്ഷണം സംഭവിക്കുന്നു അതിനാൽ കൺട്രോളർ u യുയിലെ ഒരു തൽക്ഷണ മാറ്റത്തോടെ പ്രതികരിക്കുകയും output ട്ട്പുട്ട് എത്രയും വേഗം ക്രമീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ അസ്വസ്ഥത ലെവലിൽ ഒരു മാറ്റം വരുമ്പോൾ അത് സംഭവിക്കുന്നില്ല നമുക്ക് പേനയുടെ മറ്റൊരു നിറം ഉപയോഗിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിലും output ട്ട്പുട്ടിൽ വരുന്ന ഈ അസ്വസ്ഥതയുടെ ഫലം കുറച്ച് സമയമെടുക്കും കാരണം അസ്വസ്ഥത പ്ലാന്റിലൂടെ പ്രവേശിച്ച് output ട്ട്പുട്ടിലേക്ക് യാത്രചെയ്യണം അതിനാൽ ആ സമയത്ത് പിശക് മാറ്റമില്ലാതെ തുടരുന്നു മാത്രമല്ല കൺട്രോളർ അതിന്റെ ഇൻപുട്ട് വ്യക്തമായി ക്രമീകരിക്കുന്നില്ല അതിനാൽ ഇത് ഇതാണ് ഇത് സിംഗിൾ ലൂപ്പ് നിയന്ത്രണത്തിന്റെ പ്രശ്നമാണ് ശരി അതിനാൽ ഇത് മനസിലാക്കിയാൽ പിശക് അസ്വസ്ഥതയും output ട്ട്പുട്ടും തമ്മിലുള്ള ഉയർന്ന കാലതാമസം ചിലപ്പോൾ error ദൃശ്യമാകുന്ന സ്ഥലത്തെ ആശ്രയിച്ച് സംഭവിക്കാം എന്ന് മനസിലാക്കാം അടുത്ത പോയിന്റ് ഇപ്പോൾ ഉയർന്ന ലാഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഘട്ടം മാർജിൻ കുറവാണെന്ന് നമുക്കറിയാം അതാണ് സിസ്റ്റം ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന് ധാരാളം ഘട്ടം കാലതാമസം ഉള്ളത് അതിനാൽ സ്ഥിരത നിലനിർത്തുന്നതിന് gains കുറയ്ക്കേണ്ടതുണ്ട് ഇപ്പോൾ gain മന്ദഗതിയിലാക്കേണ്ടതുണ്ടെങ്കിൽ സ്വാഭാവികമായും മോശം ക്ഷണികമായ പ്രതികരണം ലഭിക്കും അതിനാൽ സ്ഥിരത ആവശ്യകതകൾ കാരണം ഞങ്ങൾ പ്ലാന്റിനെ കഠിനമായി ഓടിക്കുന്നില്ല ശരിയാണ് അതിനാൽ ചിലപ്പോൾ സിംഗിൾ ലൂപ്പ് നിയന്ത്രണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണിത് രണ്ടാമതായി ഇത് അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാസ്കേഡ് നിയന്ത്രണം ഉപയോഗിച്ച് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് കാണുകയും വളരെ സാധാരണമായി അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ മറ്റ് ചില സാഹചര്യങ്ങൾ കൺട്രോളർ ന് നിയന്ത്രിക്കാൻ കഴിയും ഉദാഹരണത്തിന് ചില സന്ദർഭങ്ങളിൽസ്ഥലപരമായി വിതരണം ചെയ്ത ഒരു പ്രദേശത്ത് നിലവിലുള്ള ഒരു വേരിയബിളിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് കരുതുക ഉദാഹരണത്തിന് ഞാൻ ഇരിക്കുന്ന ഈ മുറിയിലെ താപനില നിയന്ത്രിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ ഈ മുറി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ സ്ഥലമാണ് നിങ്ങൾ എയർ കണ്ടീഷനിംഗിൽ സാധാരണ ഒരു മുറിയിലെ താപനില എങ്ങനെ നിയന്ത്രിക്കും നിങ്ങൾ തണുത്ത വായു നൽകുന്നു ഇപ്പോൾ നിങ്ങൾ എത്ര തണുത്ത വായു നൽകും എന്നത് മുറിയിലെ താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ എങ്ങനെ ഫീഡ്ബാക്ക് നൽകും വ്യക്തമായും താപനില സെൻസറുകൾ ഉപയോഗിക്കുന്നു പക്ഷേ ഒരു താപനില സെൻസർ ഇത് ഒരു ആർടിഡിയാണെന്ന് കരുതുക സാധാരണയായി എയർ കണ്ടീഷനിംഗ് താപനിലയിൽ പ്രതിരോധം താപനില ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുന്നതാണ് അർത്ഥം അതിനാൽ നിങ്ങൾ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്റ്റർ എവിടെ വയ്ക്കും നിങ്ങൾ അത് സീലിംഗിൽ ഇടുകയോ തറയിൽ ഇടുകയോ ചെയ്യും അത് തറയിലാണെങ്കിൽ അത് തറയുടെ ഏത് കോണിലാണെന്നോ അല്ലെങ്കിൽ മധ്യഭാഗത്ത് ഇടുകയാണെങ്കിലോ സെൻസർ ഇടുന്നിടത്ത് താപനില നിയന്ത്രിക്കുവാനും സാധിക്കും അതിനാൽ നിങ്ങൾ ഓർക്കുക മറ്റ് സ്ഥലങ്ങളിലെ താപനില അല്പം വ്യത്യസ്തമാണെങ്കിൽപ്പോലും ഉണ്ട് sensor ഇല്ലാത്തതുകൊണ്ട് കൺട്രോളറിന് അത് അറിയാൻ ഒരു മാർഗവുമില്ല ഒരു സെൻസറുകൾ ഉള്ളപ്പോഴെല്ലാം ആ സെൻസർ സ്ഥാനത്ത് നിയന്ത്രിത മൂല്യം നിയന്ത്രിക്കുകയാണെന്ന് മനസിലാക്കണം അതിനാൽ ചില പ്രദേശത്തിന്മേൽ കുറച്ച് ഏകീകൃത നിയന്ത്രണം നിലനിർത്തണമെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കൂടുതൽ സെൻസർ നൽകേണ്ടതുണ്ട് അവയെ ഒരു നിയന്ത്രണ ലൂപ്പിൽ സംയോജിപ്പിക്കുക അതിനാൽ ഇത് പല കേസുകളിലും ആവശ്യമാണ് അതിനാൽ മൊത്തത്തിലുള്ള പ്രോസസ് ശരാശരി നിയന്ത്രിക്കുന്നതിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒന്നിലധികം സെൻസറുകൾ ആവശ്യമാണ് അതിനാൽ മുറിയുടെ ശരാശരി താപനില നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ മൂന്ന് നാല് വ്യത്യസ്ത സ്ഥലങ്ങളിൽ മൂന്ന് നാല് സെൻസറുകൾ ഇടണം അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ തീവ്ര മൂല്യങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാമോ കാരണം ചില സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലെ output ട്ട്പുട്ട് സമാനമാകണമെന്നില്ല അത് വളരെ ഉയർന്നാൽ അത് കേടുപാടുകൾക്ക് കാരണമായേക്കാം അല്ലെങ്കിൽ വളരെ കുറവാണെങ്കിൽ അത് കേടുപാടുകൾക്ക് കാരണമായേക്കാം അതിനാൽ ചിലപ്പോൾ ഞങ്ങൾ ശരാശരി മൂല്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ ഞങ്ങൾ എക്സ്ട്രീം മൂല്യങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെട്ടേക്കാം അത് പരമാവധി അല്ലെങ്കിൽ കുറഞ്ഞ മൂല്യങ്ങളാണ് ഈ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ഒന്നിലധികം സെൻസറുകൾ ഇടേണ്ടതുണ്ട് സിസ്റ്റങ്ങൾ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ചില സന്ദർഭങ്ങളും ഉണ്ട് സെറ്റ് പോയിന്റ് വളരെ കുറവാണെന്ന് കരുതുക നിങ്ങൾ സിസ്റ്റം ഒരു മോഡിൽ പ്രവർത്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത് വളരെ ഉയർന്നതാണെങ്കിൽ മറ്റൊരു മോഡിൽ പ്രവർത്തിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പ്രക്രിയകൾ non ലീനിയർ ആയതിനാലാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോയാൽ വർഷത്തിന്റെ ഒരു ഭാഗം താപനില ചൂടാകുന്നതായി നിങ്ങൾ കണ്ടെത്തും അതിനാൽ നിങ്ങൾക്ക് എയർ കണ്ടീഷനിംഗ് ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പും സമയത്തിന്റെ ഒരു ഭാഗവും ആവശ്യമാണ് അത് മാറുമ്പോൾ ശൈത്യകാലത്ത് നിങ്ങൾ മുറി ചൂടാക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം തണുപ്പിക്കൽ ചൂടാക്കൽ എന്നിവ ഒരേ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത അതിനാൽ നിങ്ങൾ ഒരേ പ്രോസസ് വേരിയബിളിനെ റൂം താപനില ഉപയോഗം നിയന്ത്രിക്കുന്നതിന് നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത സെറ്റ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആക്യുവേറ്ററുകൾ ആവശ്യമാണ് കൂടാതെ നിങ്ങൾക്ക് ഒരു കൺട്രോൾ ലൂപ്പ് ആവശ്യമാണ് അത് ഈ രണ്ട് ആക്യുവേറ്ററുകളെ സംയോജിപ്പിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സെറ്റ് താപനിലയെ ആശ്രയിച്ച്അവയിലേതെങ്കിലും ഒന്ന് പ്രവർത്തിപ്പിക്കും അതായത് സെറ്റ് താപനില ആംബിയന്റിനേക്കാൾ കുറവാണോ അതോ ആംബിയന്റിനേക്കാൾ കൂടുതലാണോ എന്നുംഅടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ലൂപ്പ് ഘടനയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമുക്ക് കാസ്കേഡ് നിയന്ത്രണം നോക്കാം അതിനാൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കാസ്കേഡ് നിയന്ത്രണത്തിനുള്ള പ്രചോദനമാണ് ആണ് ആണ് ഇവിടെ ഒരു പ്രക്രിയ ശരിയായി സങ്കൽപ്പിക്കുക അതിനാൽ ഇവിടെ നമുക്ക് ഒരു പ്രക്രിയയുണ്ട് അതിനാൽ ഇതാണ് ഞങ്ങളുടെ പ്ലാന്റ് ഇപ്പോൾ പ്ലാന്റ് യഥാർത്ഥത്തിൽ രണ്ട് വ്യത്യസ്ത സബ്സിസ്റ്റങ്ങൾ ഉൾക്കൊള്ളുന്ന എന്ന്നമ്മൾ സങ്കല്പിക്കുന്നു ഇപ്പോൾ നമ്മൾ ഉദാഹരണങ്ങൾ കാണുന്നു ഉദാഹരണങ്ങൾ വളരെ കാണും താമസിയാതെ നിരവധി കേസുകളുണ്ട് ഉദാഹരണത്തിന് റിയാക്ടറുകളുടെ തണുപ്പിക്കൽ വളരെ സാധാരണമായ ഒരു കേസാണ് ഇവിടെ ഇൻപുട്ട് തമ്മിലുള്ള ബന്ധം റിയാക്ടറിന്റെ ജാക്കറ്റുകളിലൂടെ ഒഴുകുന്ന ശീതീകരണ ദ്രാവകങ്ങൾ ഉപയോഗിച്ചാണ് സാധാരണ റിയാക്ടറുകൾ തണുപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ റിയാക്ടറിന് അതിന്റെ ഭിത്തിയിൽ കുറച്ച് ഇടമുണ്ട് കൂടാതെ നിങ്ങൾ ആ സ്ഥലത്തിലൂടെ ശീതീകരണത്തെ ചുറ്റുന്നു അങ്ങനെ റിയാക്ടറിന്റെ താപനില തണുപ്പിക്കാൻ സാധിക്കുന്നു പ്രതിപ്രവർത്തനം തന്നെ താപം ഉൽപാദിപ്പിക്കുന്ന എക്സോതെർമിക് റിയാക്ടറുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അതിനാൽ ഇൻപുട്ട് നീരാവി ഫ്ലോ റേറ്റും output ഔട്ട്ട്ട്പുട്ട് നിങ്ങൾ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന റിയാക്ടറിന്റെ താപനിലയുമാണ് അതിനാൽ ഈ നീരാവി ഫ്ലോ റേറ്റ് ഒരു താപനിലയിലേക്ക് എങ്ങനെ വിവർത്തനം ചെയ്യുന്നു അതിനായി വിവിധ ഘട്ടങ്ങളുണ്ട് അതിനാൽ ആദ്യം ആദ്യം നിങ്ങൾ ഇടുക നീരാവി ഫ്ലോ റേറ്റ് അല്ല കൂളന്റ് ഫ്ലോ റേറ്റ് അതിനാൽ ആദ്യം ശീതീകരണ ഫ്ലോ റേറ്റ് ജാക്കറ്റിൽ ഒരു താപനില സ്ഥാപിക്കും കാരണം ജാക്കറ്റിനും റിയാക്റ്റർ ഇന്റീരിയറിനുമിടയിൽ താപനില വ്യത്യാസമുണ്ടാകും അതിനാൽ താപ കൈമാറ്റം ഉണ്ടാകും റിയാക്ടറിൽ നിന്ന് ജാക്കറ്റിലേക്ക് ചൂട് വരും അതിനാൽ താപനില കുറയുന്നു അതിനാൽ അടിസ്ഥാനപരമായി രണ്ട് വ്യത്യസ്ത സംവിധാനങ്ങളുണ്ട് ഒന്ന് ഒഴുക്ക് മുതൽ ജാക്കറ്റിലെ താപനില സ്ഥാപിക്കൽ ജാക്കറ്റ് മുതൽ ബാധിക്കുന്നതുവരെ അത് ജാക്കറ്റിനും റിയാക്ടർ ചൂട് കൈമാറ്റ സംവിധാനത്തിനും ഇടയിലുള്ള ജാക്കറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരു മോട്ടോർസ്ഥാനം നിയന്ത്രിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കരുതുക അതിനാൽ നിങ്ങൾ മോട്ടറിന്റെ ടെർമിനലിൽ വൈദ്യുത വോൾട്ടേജ് മാറ്റുന്നു അതിനാൽ വോൾട്ടേജ് റിലേ ഇത് ഒരു ഡിസി മോട്ടോർ ആണെന്ന് കരുതുക അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ അർമേച്ചർ കറന്റ് മാറ്റുന്നു നിങ്ങൾ അർമേച്ചർ കറന്റ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ മാറ്റുന്നത് ടോർക്ക് torque ആണ് അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾ നൽകുന്ന ഇൻപുട്ട് ടോർക്ക് ആണ് ഇപ്പോളും ഇവിടെയും നിങ്ങൾക്ക് ടോർക്ക് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് ഒരു പൊസിഷൻ കൺട്രോൾ ആപ്ലിക്കേഷൻ കരുതുക അതിനാൽ ടോർക്ക് ആക്സിലറേഷന് നേരിട്ട് ആനുപാതികമാണ് നിശ്ചലതയുടെ നിമിഷം വിഭജിക്കുക നിങ്ങൾക്ക് ത്വരണം ലഭിക്കും അതിനാൽ അത് സ്ഥിരമാണ് എന്നാൽ ആക്സിലറേഷനും വേഗതയ്ക്കും ഇടയിൽ ഒരു സംയോജനമുണ്ട് അതിനാൽ ഇത് സംയോജനം 1 s ആകാം ഇവിടെ നിങ്ങൾക്ക് വേഗതയുണ്ട് വേഗതയ്ക്കും സ്ഥാനത്തിനും ഇടയിൽ നിങ്ങൾക്ക് മറ്റൊരു സംയോജനമുണ്ട് അതിനാൽ ഇത് മറ്റൊരു 1 s ആണ് നിങ്ങൾക്ക് വേഗത ലഭിക്കുകയും നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇൻപുട്ട് ടോർക്കിനും output ട്ട്പുട്ട് സ്ഥാനത്തിനും ഇടയിൽ നിങ്ങൾക്ക് ഈ കേസിൽ രണ്ട് വ്യത്യസ്ത സബ്സിസ്റ്റമുകളുണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഒരു മോട്ടറിന്റെ കാര്യത്തിൽ ഇത് ഒരു അവിഭാജ്യ ഘടകമാണ് അതിനാൽ ഇത് ഇപ്പോൾ വളരെ സാധാരണമായ ഒരു അവസ്ഥയാണ് നിങ്ങൾക്കറിയാം എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ലോഡ് അസ്വസ്ഥതകൾ ഉണ്ടാകാം അതിനാൽ ലോഡ് അസ്വസ്ഥത എവിടെ വരുന്നു ലോഡ് അസ്വസ്ഥത വരാം വിവിധ സ്ഥലങ്ങളിൽ വരാം ഈ സാഹചര്യത്തിൽ മോട്ടറിന്റെ കാര്യത്തിൽ അത് വരാം ഇൻപുട്ടിൽ തന്നെ വരാം കാരണം മൊത്തം വൈദ്യുതകാന്തിക ടോർക്ക് മൈനസ് ലോഡ് ടോർക്ക് നിങ്ങൾക്ക് നെറ്റ് ടോർക്ക് നൽകും അതിനാൽ ഒരു ലോഡ് അസ്വസ്ഥത ഇവിടെ വന്നാൽ ഇത് ഈ മുഴുവൻ പ്രക്രിയയിലൂടെയും സഞ്ചരിക്കേണ്ടതാണ് തുടർന്ന് ഇത് output ട്ട്പുട്ടിനെ ബാധിക്കുകയും അത് ഫീഡ്ബാക്ക് ആകുകയും തുടർന്ന് പിശകുകൾ ഉണ്ടാകുകയും ചെയ്യും അതിനാൽ ഇത് വളരെയധികം കാലതാമസം എടുക്കുന്നു അതിനാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഘട്ടം കാലതാമസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം സ്ഥിരത മാർജിനുകൾ കുറവാണെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ അസ്വസ്ഥത d2 മുതൽ y ട്രാൻസ്ഫർ ഫംഗ്ഷന് lag ഉണ്ട് എന്നാൽ അങ്ങനെ സംഭവിക്കുന്നത് കാരണം d2 ഈ ഇന്റർമീഡിയറ്റ് വേരിയബിൾ y1 നെ ഉടൻ ബാധിക്കുന്നു അല്ലെങ്കിൽ അസ്വസ്ഥത ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള അസ്വസ്ഥതയും അളവെടുപ്പുംവേരിയബിൾ y1 തമ്മിലുള്ള transfer function സ്വഭാവത്തിൽ വളരെ കുറവ് കാലതാമസം കാണാം ട്രാൻസ്ഫർ ഫംഗ്ഷനേക്കാൾ ഈ അസ്വസ്ഥതയും ഈ output ട്ട്പുട്ടും തമ്മിലുള്ള കാലതാമസത്തേക്കാൾ ഇപ്പോൾ ഇത് ഒരു നിരീക്ഷണമാണ് അതിനാൽ ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിൾ ഞങ്ങൾ ഉപയോഗിക്കാത്തവ ഒരുപക്ഷേ അത് അളക്കാം ഒരുപക്ഷേ ഇത് വളരെ ലളിതമായി അളക്കാം ഉദാഹരണത്തിന് കൂളിംഗ് റിയാക്ടറിന്റെ കാര്യത്തിൽ ജാക്കറ്റിന്റെ താപനില നമുക്ക് അളക്കാൻ കഴിയുമെന്ന് കരുതുക ഒരു ടെമ്പറേച്ചർ സെൻസർ ഇടുക സമാനമായി മിക്ക പൊസിഷൻ കൺട്രോൾ ലൂപ്പുകൾക്കും സ്പീഡ് ഫീഡ്ബാക്ക് ഉണ്ട് അതിനാൽ ഷാഫ്റ്റ് ഫീൽഡ് അളക്കുന്നതിന് ചിലതരം ടാക്കോമീറ്റർ അല്ലെങ്കിൽ സ്പീഡ് എൻകോഡർ ഇടേണ്ടതുണ്ട് അവ അളക്കാൻ വളരെ പ്രയാസമുള്ളവയല്ല ഇപ്പോൾ നമുക്ക് മറ്റൊരു അളവുണ്ട് എന്നതാണ് ഇതിന്റെ ഗുണം അതിനാൽ നിങ്ങൾ അത് കാണുന്നു അതിനാൽ നമുക്ക് ചില ഇന്റർമീഡിയറ്റ് വേരിയബിൾ y1 അളക്കാൻ കഴിയുമെങ്കിൽ അത് തിരികെ നൽകുന്നത് എന്തെങ്കിലും ഗുണം നൽകുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇത് ധാരാളം നേട്ടങ്ങൾ നൽകുന്നു അസ്വസ്ഥത മൂലമുള്ളപ്രതികരണത്തിൽ നിങ്ങൾക്ക് കാര്യമായ പുരോഗതി നൽകാൻ കഴിയും set പോയിന്റ് മാറ്റങ്ങൾ സജ്ജീകരിക്കുന്നത് വഴിയുള്ള ക്ഷണിക പ്രതികരണത്തിലെ മെച്ചപ്പെടുത്തൽ ഇതുമൂലം സംഭവിക്കുന്നു കാസ്കേഡ് നിയന്ത്രണത്തിലൂടെ അത് നേടാനാകും അതിനാൽ എങ്ങനെ നമുക്ക് അത് നോക്കാം അതിനാൽ ഞങ്ങൾ കാസ്കേഡ് നിയന്ത്രണം നോക്കുന്നു ശരി ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിനാൽ ആദ്യം ഇത് നോക്കാം ചില ഇന്റർമീഡിയറ്റ് വേരിയബിൾ ഉണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചുവെന്ന് കരുതുക ചില ഇന്റർമീഡിയറ്റ് വേരിയബിൾ y1 ഉണ്ട് അത് ഞാൻ അളക്കാൻ പോകുന്നു ഞാൻ അത് തിരികെ നൽകാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ y ഫീഡ്ബാക്ക് ലൂപ്പ് ഇത് സ്റ്റാൻഡേർഡ് ലൂപ്പായ ബാഹ്യ അല്ലെങ്കിൽ പ്രാഥമിക ലൂപ്പാണെന്ന് നിങ്ങൾ കാണുന്നു ലൂപ്പിനുള്ളിൽ കൂടാതെ മറ്റൊരു ലൂപ്പ് ഞങ്ങൾ ആന്തരിക അല്ലെങ്കിൽ ദ്വിതീയ ലൂപ്പ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ എന്താണ് ദ്വിതീയ ലൂപ്പിന്റെ പ്രവർത്തനം എന്താണ് രസകരമായ നിരവധി ഫംഗ്ഷനുകൾ ഉണ്ട് ആദ്യം നിങ്ങൾ പ്രാഥമിക ലൂപ്പ് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മുമ്പ് അത് ലൂപ്പിൽ സി 1 ജിപി 2 ജിപി 1 C1 Gp2 and Gp1എന്നിവ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് Gp2 ന് പകരം നിങ്ങൾക്ക് Gp2 ഉണ്ട് ഇത് ഈ ആന്തരിക ലൂപ്പിന്റെ അടച്ച ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് മുമ്പ് നിങ്ങൾക്ക് ഈ gp2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ Gp2 ഉം Gp2 ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നാമതായി ജിപി 2 ന് വളരെ കുറഞ്ഞ ഘട്ടം വളരെ കുറഞ്ഞ ഘട്ടം കാലതാമസം അതായത് അടഞ്ഞ ലൂപ്പ് സിസ്റ്റങ്ങൾക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റങ്ങളേക്കാൾ വളരെ കുറഞ്ഞ ഘട്ടം കാലതാമസം ഉള്ളതിനാൽ ഇത് എല്ലായ്പ്പോഴും ശരിയാണ് അതിനാൽ ഇതിന് വളരെ കുറഞ്ഞ ഘട്ടം കാലതാമസം ഉണ്ട് അതിനർത്ഥം നിങ്ങൾ ഈ ബാഹ്യ ലൂപ്പ് കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ സി 1 ജിപി 2 ജിപി 1 സംയോജനത്തിൽ C1 G'p2 Gp1 combinationമൊത്തത്തിലുള്ള ഘട്ടം കാലതാമസം കുറഞ്ഞു അതിനാൽ ഇത് കുറച്ചാൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സി 1 ന്റെ മൂല്യം കൺട്രോളറിന്റെ നേട്ടങ്ങളുടെ ഈ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും ശരിയാണ് അതിനാൽ C2 ന് ഇപ്പോൾ തന്നെ കഴിയും അതിനർത്ഥം മൊത്തത്തിലുള്ള ക്ഷണികമായ പ്രതികരണം വർദ്ധിക്കുമെന്നാണ് കാരണം ഇപ്പോൾ r ലെ ഏത് സെറ്റ് പോയിൻറ് മാറ്റവും C1 വളരെ വേഗത്തിൽ പ്രവർത്തിക്കും കാരണം ഇതിന് ഉയർന്ന നേട്ടങ്ങളുണ്ട് അതിനാൽ ഇത് വളരെ നല്ല നേട്ടമാണ് അതിനാൽ ഇതിനർത്ഥം ഈ Gp2 ന് ഗണ്യമായി താഴ്ന്ന ഘട്ടമുള്ള രീതിയിൽ ഞങ്ങൾ ഈ ലൂപ്പ് രൂപകൽപ്പന ചെയ്യണം എന്നാണ് അതിനാൽ നമുക്ക് എപ്പോഴാണ് അത് ചെയ്യാൻ കഴിയുക അതിനാൽ സി 2 ഉയർന്നപ്പോൾ ഒരു അടച്ച ലൂപ്പ് സിസ്റ്റത്തിന് കുറഞ്ഞ ഘട്ടം ഉണ്ടാകുമ്പോൾ അടച്ച ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ കാണുന്നു ഇത് ജി 2 സി 2 ബൈ 1 ജി 2 സി 2 ആണ്G2C2 1G2C2 ആന്തരിക ലൂപ്പിന്റെ അടച്ച ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഇത് അതിനാൽ സി 2 നെ ഉയർന്നതാക്കാൻ കഴിയുമെങ്കിൽ ഇത് ഏതാണ്ട് 1 ന് തുല്യമാകും അതിനാൽ ഘട്ടം ലൂപ്പ് ഘട്ടം കാലതാമസം 0 ആയി കുറയുന്നു അതിനാൽ നമുക്ക് ഉയർന്ന സി 2 ഉപയോഗിക്കാൻ കഴിയണം പക്ഷേ നമുക്ക് ഉയർന്ന സി 2 ഉപയോഗിക്കാൻ കഴിയുമോ അതെ കാരണം ഈ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ലൂപ്പ് ഘട്ടം കാലതാമസം GP2 മാത്രമാണ് മുമ്പത്തെ ബാഹ്യ ലൂപ്പിന് ഞങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നു കാരണം ജിപി 2 ജിപി 1 എന്നിവയുടെ ഘട്ടം കുറയുന്നു പക്ഷേ ഇപ്പോൾ ആന്തരിക ലൂപ്പിൽ നമുക്ക് ജിപി 2 ന്റെ ഘട്ടം കാലതാമസം മാത്രമേയുള്ളൂ ഉദാഹരണത്തിന് ഞങ്ങളുടെ മോട്ടോർ നിയന്ത്രണത്തെ സംബന്ധിച്ചിടത്തോളം ജിപി 2 ന് പരമാവധി 90˚ ഫേസ് ലാഗ് ഉണ്ട് അതിനാൽ എന്തെങ്കിലും 90˚ ഫേസ് ലാഗ് ഉണ്ടെങ്കിൽ അത് ഒരു ആദ്യത്തെ ഓർഡർ പ്രക്രിയയാണ് സൈദ്ധാന്തികമായി പറഞ്ഞാൽ നമുക്ക് സി 2 ന്റെ ഉയർന്ന നേട്ടങ്ങൾ ഉപയോഗിക്കാം ഞങ്ങൾ C2 ന്റെ വളരെ ഉയർന്ന നേട്ടങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അടച്ച ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1 ന് തുല്യമായിരിക്കും അതിനാൽ C2 ആയിരിക്കേണ്ടത് തീർച്ചയായും സാധ്യമാണ് അതിനാൽ ആന്തരിക ലൂപ്പ് ഘട്ടം കുറവായതിനാൽ അത് വളരെ കുറവായിരിക്കാം പലപ്പോഴും സി 2 വളരെ ഉയർന്ന നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് ബാഹ്യ ലൂപ്പ് ഘട്ടവും ഗണ്യമായി കുറയുന്നു അതിനാൽ സി 1 ഉയർന്ന നേട്ടമുണ്ടാക്കാം അതിനാൽ അതാണ് കാര്യം രണ്ടാമത്തെ കാര്യം മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്നു ഡി 2 ന്റെ ഈ പ്രതികരണം2 വളരെ വേഗതയിൽ y ലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ ശ്രദ്ധിക്കുന്നു d2 സമയമെടുക്കുന്നു ഇപ്പോൾ സംഭവിക്കുന്നത് d2 ന്റെ പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ പ്രഭാവം പോലും ഒരു മോട്ടറിന്റെ കാര്യത്തിലെന്നപോലെ ഇവിടെ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നിന്ന് ഇവിടേക്ക് എടുക്കുന്ന സമയം വളരെ കുറവാണ് അത് ഇവിടെ നിന്ന് ഇവിടെ വരെ അതുപോലെ ഇവിടെ നിന്ന് ഇവിടേക്ക് d2 മുതൽ ഇവിടെ വരെ ഉടനടി ഉണ്ട് ഈ ലൂപ്പിന് വളരെ ഉയർന്ന നേട്ടം ഉള്ളതിനാൽ അതിനാൽ ഈ അസ്വസ്ഥത ആഘാതം വളരെ വേഗത്തിൽ ആന്തരിക ലൂപ്പിൽ തന്നെ ശരിയാക്കുന്നു മാത്രമല്ല അത് ബാഹ്യ ലൂപ്പിലേക്കുള്ള യാത്ര സംഭവിക്കുന്നില്ല അതിനാൽ ആന്തരിക ലൂപ്പിനുള്ളിലെ അസ്വസ്ഥത ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതുപോലെ ബാഹ്യ ലൂപ്പിലേക്ക് ഒഴുകുന്നത് തടയാൻ ഞങ്ങൾക്ക് കഴിയുന്നു അതിനാൽ ആന്തരിക ലൂപ്പ് അസ്വസ്ഥതയുടെ ഫലങ്ങൾ ആന്തരിക ലൂപ്പിൽ വളരെ വേഗത്തിൽ നിർവീര്യമാക്കി ഇവ വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞതുപോലെ അതിനാൽ ബാഹ്യ ലൂപ്പ് ഘട്ടം കുറവാണ് അതിനാൽ സി1 മൊത്തത്തിലുള്ള സിസ്റ്റത്തിന് ഉയർന്ന നേട്ടവും മികച്ച ക്ഷണികമായ പ്രതികരണവുമാകാം അതിനാൽ നിങ്ങൾക്ക് മികച്ച സ്ഥിരത മാർജിനുകളുള്ള നിരവധി ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾ കാണുന്നു ആന്തരിക ലൂപ്പിനുള്ളിൽ ആന്തരിക ലൂപ്പ് അസ്വസ്ഥതകൾ അടങ്ങിയിരിക്കാം അവ output ട്ട്പുട്ടിനെ ബാധിക്കുകയില്ല അവ ആന്തരിക ലൂപ്പിലേക്ക് കണക്റ്റുചെയ്യപ്പെടും മൂന്നാമതായി പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷണികമായ പ്രതികരണം മെച്ചപ്പെടും കാരണം നിങ്ങൾക്ക് ബാഹ്യ ലൂപ്പിൽ ഉയർന്ന നേട്ടങ്ങൾ ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു അധിക അളവെടുപ്പ് നമ്പറിന്റെ ചെലവിൽ ലഭിക്കുന്നു നമ്പർ രണ്ട് അല്പം കൂടുതലാണ് സങ്കീർണ്ണമായ നിയന്ത്രണ നിയമം അതിനാൽ ഇവ മിക്കപ്പോഴും പ്രക്രിയയുടെ മികച്ച നിയന്ത്രണത്തിനായി നൽകേണ്ട വളരെ കുറഞ്ഞ വിലകളാണ് അതിനാൽ അവ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഒരു പ്രായോഗിക ഉദാഹരണം നോക്കാം അതിനാൽ ഒരു തരം എക്സോതെർമിക് റിയാക്ടറിന്റെ താപനില നിയന്ത്രിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാൽ വ്യക്തമായും ഞങ്ങൾ ഇവിടെ ഒരു ഫീഡ്ബാക്ക് നൽകുന്നു ഇതാണ് ബാഹ്യ ലൂപ്പ് അതിനാൽ ഇതാണ് ഇതാണ് ബാഹ്യ ലൂപ്പ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രാഥമിക ലൂപ്പ് ഫീഡ്ബാക്ക് പല അസ്വസ്ഥതകളും ഉണ്ടാകാം ഉദാഹരണത്തിന് ഒരു ഫീഡ് താപനില Tf ഉണ്ടാകാം ഇത് റിയാക്ടറിന്റെ താപനില Tr2 അങ്ങനെ പെട്ടെന്ന് Tr മാറ്റാൻ കാരണമാകും ശീതീകരണ താപനിലയിലും ഒരു അസ്വസ്ഥതയുണ്ടാകാം ശീതീകരണത്തിന്റെ തന്നെ ഫ്ലോ റേറ്റ് നിങ്ങൾ നിയന്ത്രിക്കുന്നു പക്ഷേ ശീതീകരണത്തിന്റെ താപനില അറിയില്ല മിക്കവാറും അത് ഞങ്ങളുടെ കയ്യിൽ ഇല്ല അതിനാൽ ശീതീകരണത്തിന്റെ താപനില തന്നെ അസ്വസ്ഥതയുണ്ടാക്കും ഇത് ടിലേക്ക് യാത്ര ചെയ്യാൻ വളരെയധികം സമയമെടുക്കുംr കാരണം ഇത് ഒന്നാമതായി മാറേണ്ടതുണ്ട് ഈ താപനില ശീതീകരണത്തിന് മുഴുവൻ ജാക്കറ്റിന്റെയും താപനില തന്നെ മാറ്റേണ്ടി വരും ചൂട് കൈമാറ്റവും മിക്സിംഗ് പ്രക്രിയയും ആ ജാക്കറ്റിന്റെ താപനില മാറി കഴിഞ്ഞാൽ മറ്റൊരു താപ കൈമാറ്റ പ്രക്രിയയിലൂടെ റിയാക്റ്ററിന്റെ താപനില മാറും തുടർന്ന് ഫീഡ്ബാക്ക് മാത്രമേ പോകൂ തുടർന്ന് ഫ്ലോ റേറ്റ് മാത്രമേ ബാധിക്കുകയുള്ളൂ അതിനാൽ ഇപ്പോൾ അതിനുപകരം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കാസ്കേഡ് കൺട്രോൾ ലൂപ്പിന്റെ ഉപയോഗം നോക്കാം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാസ്കേഡ് കൺട്രോൾ ലൂപ്പ് ഉണ്ട് അവിടെ ഞങ്ങൾ ഇപ്പോൾ ജാക്കറ്റ് താപനില എന്ന് വിളിക്കുന്ന ഈ അധിക അളവ് കൂട്ടിച്ചേർക്കുന്നു ഞങ്ങൾ അത് തിരികെ നൽകുന്നു ശരിയാണ് അതിനാൽ ഇത് ഞങ്ങളുടെതാണ് ഇതാണ് എന്റെ ദ്വിതീയ ലൂപ്പ് അല്ലെങ്കിൽ ആന്തരിക ലൂപ്പ് ഇതാണ് എന്റെ പ്രാഥമിക ലൂപ്പ് അതിനാൽ ഇപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത് ഞാൻ നൽകുന്നു അതിനാൽ ഇത് അതിനാൽ പ്രാഥമിക ലൂപ്പ് ഫീഡ്ബാക്ക് അവിടെ ആദ്യത്തെ കൺട്രോളറിലേക്ക് വരുന്നതിൽ പിശകുണ്ട് അതിനാൽ ഇത് എന്റെ സി1 ആണ് ഇത് ജാക്കറ്റ് താപനില നിയന്ത്രിക്കുന്ന മറ്റൊരു താപനില കൺട്രോളറാണ് സി2 ഒടുവിൽ ഇത് എന്റെ യു ആണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ശീതീകരണ താപനില മാറ്റം ഉണ്ടെങ്കിൽ ടി ബാധിക്കുകയുംജെ യെ അത്വളരെ വേഗത്തിൽഅതിന് ഫീഡ്ബാക്ക് ലഭിക്കുകയും ചെയ്യും അതിനാൽ ഫ്ലോ റേറ്റ് സ്വപ്രേരിതമായി മാറും വളരെ വേഗം അതിനുമുമ്പുതന്നെ അത് റിയാക്റ്റർ താപനിലയെ ബാധിക്കാൻ തുടങ്ങും അതിനാൽ രാസ പ്രക്രിയകളിലെ അത്തരം താപനില നിയന്ത്രണ ലൂപ്പുകൾ മിക്കവാറും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും മോട്ടോർ പൊസിഷൻ കൺട്രോൾ ലൂപ്പുകളിലേതുപോലെ അവ കാസ്കേഡ് ചെയ്യപ്പെടുന്നുനിങ്ങൾക്ക് കാസ്കേഡ് നിയന്ത്രണം ഇല്ലാത്തപ്പോൾ വേഗതയുടെ ഫീഡ്ബാക്ക് വളരെ വിരളമാണ് ഞാൻ ആ സാഹചര്യത്തെ മാതൃകയാക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ കാര്യങ്ങൾ എങ്ങനെയെന്ന് ഇത് കാണിക്കുന്നു അതിനാൽ Δ ΔFC ശീതീകരണത്തിന്റെ ഒഴുക്കിന്റെ മാറ്റമാണ് ΔFC ജാക്കറ്റിലൂടെ ഈ JTJ യെ ബാധിക്കുന്നുവെന്ന് ഇത് അതുപോലെ ഈ ΔTC വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഈ ഇഫക്റ്റുകൾ ഈ ഒഴുക്കും താപനിലയുമാണ് ഈ ഇഫക്റ്റുകൾ യഥാർത്ഥത്തിൽ ഗുണിതമാണ് multiplicative അതിനാൽ അവയുടെ വർദ്ധനവ് ഞാൻ പരിഗണിച്ചു അതിനാൽ അവ അഡിറ്റീവായി മാറുന്നു അതിനാൽ ഈ ΔTC ΔTJ യെയും ബാധിക്കുന്നുവെന്ന് കാണിക്കുന്നു തുടർന്ന് ΔTJ സ്ഥാപിച്ചുകഴിഞ്ഞാൽ ΔTJ നും ΔTR നും ഇടയിൽ ഒരു റിയാക്ടർ ചൂട് കൈമാറ്റ ചലനാത്മകതയുണ്ട് അതുപോലെ തന്നെ ഫീഡ് താപനില വ്യതിയാനവും റിയാക്റ്റർ ഡൈനാമിക്കിനെ ബാധിക്കുന്നു അതിനാൽ ഇത് ഒരു അസ്വസ്ഥതയാണ് d1 ഇത് മറ്റ് അസ്വസ്ഥത d2 ആണ് ഈ ജാക്കറ്റിന് ചുറ്റും ഞങ്ങൾ ഒരു ഫീഡ്ബാക്കും റിയാക്ടറിന് ചുറ്റും മറ്റൊരു ഫീഡ്ബാക്കും നൽകുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് ആ കാര്യം വിശദീകരിക്കുന്നു അതിനാൽ ഇത് കാസ്കേഡ് നിയന്ത്രണം മനസിലാക്കുന്നു പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ആദ്യം ദ്വിതീയ ലൂപ്പുകൾക്ക് പി കൺട്രോളറുകൾ ഉപയോഗിക്കാമെന്നതാണ് പി കൺട്രോളറുകൾ സ്ഥിരമായപിശകുകൾക്ക് കാരണമാകുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഉദാഹരണമായി ദ്വിതീയ ലൂപ്പ് output ട്ട്പുട്ട് ഒരു യഥാർത്ഥ output ട്ട്പുട്ട് അല്ല അതിനാൽ സ്ഥിരമായ ഒരു state പിശക് ഉണ്ടെങ്കിൽപ്പോലും ആ output ട്ട്പുട്ട് നിയന്ത്രിക്കാൻ താൽപ്പര്യമില്ല രണ്ടാമതായി സ്ഥിരമായ ഒരു പിശക് ഉണ്ടെങ്കിൽ എന്താണ് വഴി അതിനുചുറ്റും പോകാനുള്ള ഒരു മാർഗ്ഗം സെറ്റ് പോയിന്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ നിങ്ങൾ നൂറ് നൽകിയാൽ ഒരു നിയന്ത്രണ ലൂപ്പിൽ കരുതുക സ്ഥിരമായ ചില പിശകുകളുണ്ട് കാരണം ആനുപാതികമായ ചില കൺട്രോളർ ഉണ്ട് ഈ ലൂപ്പിൽ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു പിശക് ലഭിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം 95 എന്ന് പറയുക അപ്പോൾ ചുറ്റിക്കറങ്ങാനുള്ള ഒരു മാർഗ്ഗം ഈ പ്രശ്നം നിങ്ങൾ 100 നൽകുന്നതിനേക്കാൾ 105 നൽകുന്നു 105 നൽകിയാൽ നിങ്ങൾക്ക് വളരെ അടുത്തോ 99 7 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ലഭിക്കും അതിനാൽ നിങ്ങൾ സെറ്റ് പോയിന്റ്set point ക്രമീകരിക്കുക എന്നതാണ് സാങ്കേതികത ഇപ്പോൾ സെറ്റ് പോയിന്റ് ക്രമീകരിക്കുന്ന ആന്തരിക ലൂപ്പിനായി സെറ്റ് പോയിന്റ് ബാഹ്യ ലൂപ്പ് ക്രമീകരിക്കുന്നു വളരെ രസകരമെന്നു പറയട്ടെ സ്ഥിരമായ ഒരു state പിശക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ബാഹ്യ ലൂപ്പ് സെറ്റ് പോയിന്റ് സാവധാനം ആന്തരിക ലൂപ്പിലേക്ക് ക്രമീകരിക്കുകയും സ്ഥിരമായ state പിശക് അപ്രത്യക്ഷമാവുകയും ചെയ്യും അതിനാൽ നിങ്ങൾക്ക് പി കൺട്രോളറുകൾ ഉപയോഗിക്കാം ദ്വിതീയ സാധാരണ ഫ്ലോ കൺട്രോൾ ലൂപ്പുകൾ പലപ്പോഴും ദ്വിതീയ ലൂപ്പുകളാണ് മാത്രമല്ല ഒരു പ്രധാന നേട്ടവുമുണ്ട് കാരണം ഈ ഫ്ലോ കൺട്രോൾ ഉപകരണങ്ങൾ വാൽവുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ഗണ്യമായി non ലീനിയർ അതിനാൽ എന്തോ ഒരു non ലീനിയർ എന്നതിനർത്ഥം എല്ലായ്പ്പോഴും കാണുക ഞങ്ങൾക്ക് വിവിധ non ലീനിയർ സിസ്റ്റങ്ങളുണ്ട് ഞങ്ങൾ അവയെ നോക്കുന്നു ലീനിയർ കൺട്രോൾ സിദ്ധാന്തം ഉപയോഗിച്ച് അവ വിശകലനം ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അതിനർത്ഥം ഞങ്ങൾ ഉപയോഗിക്കുന്നുവെന്നാണ് അവരുടെ വർദ്ധിച്ചുവരുന്ന സ്വഭാവം നിങ്ങൾക്കറിയാം ഞങ്ങൾ ലോക്കൽ ലൂപ്പുകൾ എടുക്കുന്നു തുടർന്ന് ഞങ്ങൾ പ്രാദേശിക ചരിവുകളെ സ്വഭാവ സവിശേഷതയായി പരിഗണിക്കുകയും അവയെ നേട്ടങ്ങളായി പരിഗണിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് വാൽവ് വർദ്ധനവ് ഗണ്യമായി മാറുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാലതാമസമുണ്ടെന്ന് ഓർമ്മിക്കുക അതിനാൽ മൊത്തത്തിലുള്ള പ്രോസസ്സ് നേട്ടം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ പ്രോസസ് നേട്ടം വ്യത്യാസപ്പെട്ടിരിക്കും കാരണം വാൽവ് നേട്ടം വ്യത്യാസപ്പെട്ടിരിക്കും അതിനാൽ നിങ്ങൾ എന്താണ് ഒരു കൺട്രോളർ രൂപകൽപ്പന ചെയ്യുന്നത് അതിനാൽ ഒരു കൺട്രോളർ രൂപകൽപ്പന ചെയ്യുന്നതിന് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് കൺട്രോളർ നേട്ടത്തെക്കുറിച്ച് യാഥാസ്ഥിതിക എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം അതിനാൽ ഏറ്റവും ഉയർന്ന വാൽവ് നേട്ടത്തിന് പോലും അത് അസ്ഥിരമായി പോകില്ല എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് വാൽവ് ആന്തരിക ലൂപ്പിലായതിനാൽ ആന്തരിക ലൂപ്പ് കൺട്രോളർ സങ്കൽപ്പിക്കുക അടച്ച ലൂപ്പ് നിയന്ത്രണത്തിന്റെ ജോലി എന്താണ് അടച്ച ലൂപ്പ് നിയന്ത്രണത്തിന്റെ ജോലി കാണുക അതായത് ഒരു വ്യതിയാനം ഉണ്ടെങ്കിലും പ്രോസസ്സ് നേട്ടം ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനെ ബാധിക്കില്ല അതിനാൽ വാൽവ് വ്യതിയാനങ്ങളുടെ അടച്ച ലൂപ്പുകൾ യഥാർത്ഥത്തിൽ ആന്തരിക ലൂപ്പിലും പുറം ലൂപ്പിലും നിങ്ങൾക്ക് ഒരു രൂപകൽപ്പന ചെയ്യാൻ കഴിയും അതിനാൽ ആന്തരിക ലൂപ്പ് സ്വഭാവവും അടച്ച ലൂപ്പ് സ്വഭാവവും വാൽവ് നേട്ട വ്യതിയാനങ്ങൾ കാരണം വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് കഴിയും കൺട്രോളർ നേട്ടത്തെക്കുറിച്ച് കൂടുതൽ മികച്ച വിലയിരുത്തൽ നടത്താൻ കഴിയും അതിനാൽ ഇത് കാസ്കേഡ് നിയന്ത്രണത്തിന്റെ മറ്റൊരു നേട്ടമാണ് കാസ്കേഡ് നിയന്ത്രണം ഫലപ്രദമാകുന്നതിന് ഈ മൊത്തത്തിലുള്ള ഘട്ടം കാലതാമസം ഈ ജിപി 1 ജിപി 2 എന്നിവയിൽ നന്നായി വിതരണം ചെയ്യേണ്ടതുണ്ടെന്ന് ഞങ്ങൾ ഓർക്കണം കാരണം ജിപി 1 സ്ഥിരമായ കെ ആണെന്ന് കരുതുക ഘട്ടം കാലതാമസമില്ലെന്നും എല്ലാ ഘട്ട കാലതാമസവും ജിപി 2 ലാണെന്നും കരുതുക പിന്നെ എന്ത് സംഭവിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഫീഡ്ബാക്ക് നൽകാനുള്ള ആശയം എന്താണ് തുടർന്ന് ഓപ്പൺ ലൂപ്പ് പ്ലാന്റിന്റെ ഫീഡ്ബാക്ക് ഓപ്പൺ ലൂപ്പ് പ്ലാന്റിന്റെ ലൂപ്പ് നേട്ടം ലൂപ്പ് ഘട്ടം എന്നിവ സമാനമാണ് കാരണം രണ്ടും സ്ഥിരമാണ് അതിനാൽ ലൂപ്പ് ഘട്ടത്തിന്റെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു മാത്രമല്ല മുഴുവൻ പ്രശ്നവും ബാഹ്യ ലൂപ്പിൽ വരും അതിനാൽ ഇത് പഴയ കേസ് പോലെ മാറുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇട്ടാൽ കെ ഇതും ജിപി 1 എന്നിങ്ങനെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇവിടെ ഇടുകയാണെങ്കിൽ ആന്തരിക ലൂപ്പ് തീരുമാനിക്കുന്നതാണ് പ്രശ്നം അതിനാൽ ആന്തരിക പ്രക്രിയയുടെ അതേ സ്ഥിരത പ്രശ്നങ്ങൾ ആന്തരിക ലൂപ്പ് കൺട്രോളറിന് ഇപ്പോൾ ഉണ്ടാകും അതിനാൽ വാസ്തവത്തിൽ സാഹചര്യങ്ങളിൽ കാസ്കേഡ് നിയന്ത്രണം ശരിയായി പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതിനാൽ നിങ്ങൾ എന്തുചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഒരു വേരിയബിൾ തിരഞ്ഞെടുക്കണം അതിനാൽ കാസ്കേഡ് നിയന്ത്രണത്തിലെ ഫീഡ്ബാക്കിനായി ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന വേരിയബിൾ വളരെ വിവേകപൂർവ്വം തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുക്കണം അത് ചെടിയെ സമതുലിതമായ രണ്ട് ഉപ പ്രക്രിയകളായി വിഭജിക്കുന്നു തുടർന്ന് കാസ്കേഡ് നിയന്ത്രണ ലൂപ്പ് നന്നായി പ്രവർത്തിക്കും അതിനാൽ ഞങ്ങൾ ഇവിടെ പരിഗണിക്കാൻ പോകാത്ത മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഉദാഹരണമായി ആക്യുവേറ്ററുകളുടെ സാച്ചുറേഷൻ പ്രശ്നങ്ങളുണ്ടാകാം ആന്തരിക ലൂപ്പിന്റെയും പുറത്തിന്റെയും ആവൃത്തി കണ്ടെത്തൽ നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നങ്ങളുണ്ടാകും അടഞ്ഞ ലൂപ്പിലും ആന്തരിക ലൂപ്പിലും ബാഹ്യ ലൂപ്പിലെ മറ്റ് ചില ആവൃത്തിയിലും മൊത്തത്തിലുള്ള നേട്ടം ഉയരുമ്പോൾ അത്തരത്തിലുള്ളവയുണ്ട് അവ രൂപകൽപ്പനയുടെ കൂടുതൽ സങ്കീർണ്ണമായ പ്രശ്നങ്ങളാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ അവയെ നോക്കേണ്ടതില്ല